നമസ്കാരം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് നോർട്ടൺ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളാണ് കൂടാതെ സർക്യൂട്ടിൽ സ്വതന്ത്ര സ്രോതസ്സുകളുടെ സഹായത്തോടെ നമ്മൾ ചില ഉദാഹരണങ്ങളും ചെയ്തു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോർട്ടൺ സിദ്ധാന്തത്തെ കുറിച്ചുള്ള ചർച്ച തുടരുകയാണ് പക്ഷേ ഈ ക്ലാസ്സിൽ നമ്മൾ കൂടുതലായി സ്വതന്ത്ര സ്രോതസ്സുകളുടെ കേസുകൾ ചർച്ച ചെയ്യുന്നതാണ് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത നോർട്ടൺ സിദ്ധാന്തം എന്താണെന്ന് നോക്കാം നോർട്ടൺ സിദ്ധാന്തം പറയുന്നത് 2 ടെർമിനൽ ഉള്ള ലീനിയർ സർക്യൂട്ട് കറണ്ട് സ്രോതസ്സ് റെസിസ്റ്റൻസ് പാരലൽ ആയിട്ടുള്ള ഒരു തുല്യതാ സർക്യൂട്ട് ആയി മാറ്റിവയ്ക്കാം ഇവിടെ ടെർമിനലിലൂടെ ഉള്ള ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണ് ടെർമിനലിൽ ഉള്ള ഇൻപുട്ട് അഥവാ തുല്യതാ റസിസ്റ്റൻസ് ആണ് സ്വതന്ത്ര സ്രോതസ്സ് ഓഫ് ആയിരിക്കുമ്പോൾ സ്വതന്ത്ര സ്രോതസ്സ് ഓഫ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സ്രോതസ്സ് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും കറണ്ട് സ്രോതസ്സ് ഓപ്പൺ സർക്യൂട്ടും ഇപ്പോൾ അവസാനം നമുക്ക് നോർട്ടൺ തുല്യത ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ കിട്ടും അതായത് വേറെ ഒന്നുമല്ല പക്ഷേ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണ് അതായത് ടെർമിനൽ എ ബി യിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് നിങ്ങൾ സർക്യൂട്ടിൽ കാണുന്നതുപോലെ ഈ രണ്ട് ടെർമിനലിലൂടെ കാണുന്നത് ഇന്പുട്ട് റെസിസ്റ്റൻസിന്റെ മൂല്യം വേറൊന്നുമല്ല പക്ഷേ നോർട്ടൺ റെസിസ്റ്റൻസ് ആയിരിക്കും അതിനാൽ സ്വതന്ത്ര അല്ലെങ്കിൽ അജ്ഞാത പരിവർത്തന വസ്തുക്കൾ ഈ കേസിൽ നും നും ആണ് ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് കണ്ടുപിടിച്ചത് പോലെ തന്നെ കണ്ടുപിടിക്കാം അതായത് തെവനിയൻ റെസിസ്റ്റൻസ് തെവനിയൻ സിദ്ധാന്തത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് പോലെ നോർട്ടൺ തുല്യതാ കറണ്ട് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ടെർമിനൽ എ യിൽ നിന്നും ബി യിൽ നിന്നും വരുന്ന കറണ്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം അതിനാൽ നെറ്റ്വർക്കിൽ സങ്കൽപിക്കുക ഇത് നിങ്ങളുടെ നെറ്റ്വർക്ക് ആണ് ടെർമിനൽ എ ബി ഇതുപോലെ ഉണ്ട് നിങ്ങൾക്ക് ലളിതമായി ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ മതി എന്നിട്ട് ഷോർട്ട് സർക്യൂട്ട് കറണ്ടിന്റെ മൂല്യം കണ്ടുപിടിക്കുക ഈ നെറ്റ്വർക്ക് 2 ടെർമിനൽ ലീനിയർ ആണ് നിങ്ങൾക്ക് വേണ്ടത് ഈ രണ്ട് ടെർമിനലുകളെയും ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക എന്നിട്ട് കറണ്ടിന്റെ മൂല്യം കണ്ടുപിടിക്കുക അപ്പോൾ ഈ കറണ്ട് വേറെ ഒന്നും ആകില്ല പക്ഷേ നോർട്ടൻ കറണ്ട് ആയിരിക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് കേസുകൾ ചർച്ച ചെയ്തു നമ്മൾ ആദ്യത്തെ കേസ് വിശദമായി ചർച്ച ചെയ്തു നമ്മൾ അവിടെ സൂചിപ്പിച്ചു നോർട്ടൻ റസിസ്റ്റൻസ് കണ്ടു പിടിക്കുന്നതിനായി രണ്ട് കേസുകൾ ഉണ്ടെന്ന് ആദ്യത്തെ കേസിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു ആശ്രിത സ്രോതസ്സുകൾ ഒന്നുമില്ലെങ്കിൽ സ്വതന്ത്ര സ്രോതസ്സ് ഓഫ് ആക്കണമെന്ന് ആ കേസിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് എ യുടെയും ബി യുടെയും ഇടയിലേക്ക് നോക്കുന്ന രീതിയിൽ ആയിരിക്കും അപ്പോൾ നമ്മൾ മുൻപത്തെ ചിത്രത്തിൽ കണ്ടു ടെർമിന്നലിലൂടെ നോക്കിയാൽ സങ്കൽപിക്കുക ഇവ രണ്ടും ആണ് ടെർമിനലുകൾ നിങ്ങൾക്ക് നോർട്ടൺ റസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നാൽ നിങ്ങൾ ഈ രണ്ട് ടെർമിനലിലൂടെ ആണ് നോക്കേണ്ടത് എന്നിട്ട് നിങ്ങൾ കാണുന്ന റെസിസ്റ്റൻസ് ഈ രണ്ട് ടെർമിനലിലൂടെ കാണുന്ന റെസിസ്റ്റൻസ് ആയിരിക്കും നോർട്ടൺ റെസിസ്റ്റൻസ് അപ്പോൾ ഈ കേസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേസ് 2 നെ കുറിച്ച് കൂടുതലായി ചർച്ച ചെയ്യും അതായത് നെറ്റ്വർക്കിൽ ആശ്രിത സ്രോതസ്സുകൾ ഉണ്ടെങ്കിൽ ആ കേസിൽ നമുക്കെന്തു ചെയ്യാം നമുക്ക് സ്വതന്ത്ര സ്രോതസ്സുകളെല്ലാം ഓഫ് ചെയ്യാം കൂടാതെ ആ ആശ്രിത സ്രോതസ്സുകളെല്ലാം സർക്യൂട്ട് ലേക്ക് ഘടിപ്പിച്ച് തന്നെ ഇരിക്കും ആ കേസിൽ തെവനിയനിൽ നമ്മൾ മുന്നേ ചർച്ച ചെയ്തത് പോലെ ആശ്രിത ശ്രോതസ്സുകൾ ഓഫ് ചെയ്യാൻ പറ്റുകയില്ല കാരണം സർക്യൂട്ടിലെ വേറെ പരിവർത്തന വസ്തുക്കൾ ആണ് ഇവ നിയന്ത്രണവിധേയമാക്കി ഇരിക്കുന്നത് നമുക്ക് ആശ്രിത സ്രോതസ്സുകളുടെ കാര്യത്തിൽ ആശ്രിതത്വം ഉള്ളതിനാൽ നമുക്ക് ഇവയെ സർക്യൂട്ടിൽ നിന്ന് മാറ്റുവാൻ സാധിക്കില്ല നോർട്ടൻ തുല്യതാ സർക്യൂട്ട് വിശകലനം ചെയ്യുവാനായി ആശ്രിത സ്രോതസ്സുകൾ സർക്യൂട്ടിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നു നമുക്ക് ഇത് എങ്ങനെ പരിഹരിക്കാം ടെർമിനൽ എ ബി യിലും വോൾട്ടേജ് പ്രയോഗിക്കുക എന്നിട്ട് കറണ്ടും ഉം കണ്ടു പിടിക്കുക നമ്മൾ തെവനിയൻ തുല്യത കണ്ടുപിടിച്ചത് പോലെ അതായത് തെവനിയൻ റെസിസ്റ്റൻസിന്റെ മൂല്യം ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കണ്ടുപിടിക്കുക ആദ്യം സ്വതന്ത്ര വോൾട്ടേജ് സ്രോതസ്സുകൾ പൂജ്യത്തിന് തുല്യമായി വയ്ക്കുക സങ്കൽപ്പിക്കുക നിങ്ങൾക്ക് ഇതുപോലെ ഒരു സർക്യൂട്ട് ഉണ്ടെന്ന് ഇവിടെ 2 ടെർമിനൽ എ ബി ഉണ്ട് നിങ്ങൾ എന്തു ചെയ്യണം ന്റെ മൂല്യം കണ്ടുപിടിക്കണം വോൾട്ടേജ് സ്രോതസ്സ് ടെർമിനലിന് കുറുകെ ഘടിപ്പിക്കുക അതിനാൽ ഒരു വോൾട്ടേജ് സ്രോതസ്സ് ഒരു വോൾട്ടിന് തുല്യം ഉള്ളത് അല്ലെങ്കിൽ ഒരു പ്രത്യേക മൂല്യം ഉള്ളത് നമ്മൾ സാധാരണയായി ഒരു വോൾട്ട് ആണ് ഉപയോഗിക്കുക എന്തെന്നുവെച്ചാൽ ഇത് കണക്കു കൂട്ടാനും മറ്റും വളരെ എളുപ്പമാണ് ന്റെ മൂല്യം കണ്ടുപിടിക്കുവാൻ നിർബന്ധമല്ല എപ്പോഴും ഒരു വോൾട്ട് ആകണം എന്ന് ഏതെങ്കിലും മൂല്യം എടുത്തു സർക്യൂട്ട് പരിഹരിക്കാം ഒരു വോൾട്ട് എടുക്കുന്നത് അത് നമുക്ക് എളുപ്പം ആയതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നോർട്ടൺ റെസിസ്റ്റൻസ് ആണെന്ന് ആകുമ്പോൾ ടെർമിനൽ എ ബി യിലൂടെപ്രവഹിക്കുന്ന കറണ്ടിന്റെ പരസ്പരപൂരകം ആയിരിക്കും അതിനാൽ ഈ സമവാക്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ നോർട്ടൺ റെസിസ്റ്റൻസിന്റെ മൂല്യം കണ്ടുപിടിക്കാം അടുത്തത് നോർട്ടൺ കറൻറ്ന്റെ മൂല്യം കണ്ടുപിടിക്കണം അതായത് ടെർമിനൽ എ യും ബി യും ഷോർട്ട് സർക്യൂട്ട് ആക്കണം നിങ്ങൾക്കു നെറ്റ്വർക്ക് ഉണ്ട് ടെർമിനൽ എ ബി ഉണ്ട് ഇനി ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കണ്ടുപിടിക്കണം അതായത് ആദ്യം ടെർമിനൽ രണ്ടും ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക എന്നിട്ട് ഷോർട്ട് സർക്യൂട്ട് ടെർമിനലിലൂടെ പ്രവഹിക്കുന്ന കറണ്ടിന്റെ മൂല്യം കണ്ടുപിടിക്കുക ഇതിനു വേണ്ടി എന്തു ചെയ്യണം ഒന്നെങ്കിൽ KVL അല്ലെങ്കിൽ KCL പ്രയോഗിക്കുക ആ സർക്യൂട്ടിനു അനുയോജ്യമായത് ഏതെങ്കിലും എന്നിട്ട് കറണ്ടിന്റെ മൂല്യം കണ്ടുപിടിക്കുക ഈ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വേറൊന്നുമല്ല പക്ഷേ നോർട്ടൺ കറണ്ട് ആയിരിക്കും അവസാനം കിട്ടുന്ന സർക്യൂട്ടിൽ നമുക്കു കറണ്ട് സ്രോതസ്സ് ഉണ്ടാകും ഇതിനു പാരലൽ ആയി നോർട്ടൺ റെസിസ്റ്റൻസ് ഉം അതായത് ab അപ്പോൾ നമ്മൾ വളരെ ലളിതമായി അജ്ഞാതമായ അതായത് ലീനിയർ 2 ടെർമിനൽ നെറ്റ്വർക്ക് നോർട്ടൺ തുല്യതയുമായി മാറ്റിവയ്ക്കും അപ്പോൾ എങ്ങനെ ചെയ്യും നമുക്കൊരു ഉദാഹരണമെടുക്കാം നമുക്ക് ഈ ആശയം ശരിക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ ഉള്ള ഒരു സർക്യൂട്ട് എടുക്കുക ഈ സർക്യൂട്ട് നോക്കിയാൽ നമുക്ക് കാണാം ഇവിടെ ഒരു ആശ്രിത കറണ്ട് സ്രോതസ്സും ഒരു സ്വതന്ത്ര വോൾട്ടേജ് സ്രോതസ്സും ആശ്രിത കറണ്ട് സ്രോതസ്സ് കറണ്ട് ശ്രോതസിൻറെ മൂല്യം 4 ഓം റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ടിനെ ആശ്രയിച്ചു ഇരിക്കും ഇനി നോർട്ടൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായി നമ്മൾ എന്തു ചെയ്യണം നമ്മളാദ്യം സ്വതന്ത്ര സ്രോതസ്സുകൾ പൂജ്യം ആകണം കൂടാതെ സ്രോതസ്സുകൾ അങ്ങനെ വിടുക നമ്മൾ വോൾട്ടേജ് സ്രോതസ്സ് ഷോട്ട് സർക്യൂട്ട് ആക്കി കറണ്ട് സ്രോതസ്സിനെ അങ്ങനെ തന്നെ വിട്ടു ഇപ്പോൾ എന്ത് സംഭവിക്കും വോൾടേജ് സ്രോതസ്സ് ഷോർട്ട് സർക്യൂട്ടും കറണ്ട് സ്രോതസ്സ് അങ്ങനെ തന്നെയും വിട്ടു നെറ്റ്വർക്കിൽ കാരണം ഇത് ആശ്രിത സ്രോതസ്സാണ് 5 ഓംറെസിസ്റ്റൻസ് ഉണ്ട് ഇത് ആശ്രിത കറണ്ട് സ്രോതസ്സ് ആയിട്ട് പാരലൽ ആണ് 4 ഓം റെസിസ്റ്റൻസ് ഇപ്പോൾ ഷോർട് സർക്യൂട്ട് ആണ് കാരണം ഇവിടെ ലഭ്യമായ വോൾടേജ് നമ്മൾ ഷോർട് സർക്യൂട്ട് ചെയ്ത വോൾട്ടേജ് സ്രോതസ്സ് ആണ് ഇനി ന്റെ മൂല്യം കണ്ടുപിടിക്കുവാൻ നമ്മളെന്തു ചെയ്യണം V ആയിട്ടുള്ള ഒരു വോൾട്ടേജ് സപ്ലൈ പുറമേനിന്ന് കൊടുക്കണം എന്നിട്ട് പുറമേയുള്ള വോൾട്ടേജ് സ്രോതസ്സിലൂടെ പ്രവഹിക്കുന്ന യുടെ മൂല്യം കണ്ടുപിടിക്കണം ഇനി ഈ സർക്യൂട്ട് നോക്കിയാൽ ഈ ഭാഗം എന്താണ് ഇവിടെ ഷോർട്ട് വിഭാഗം കാണാം കാരണം നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത വോൾട്ടേജ് സ്രോതസ്സ് ആണ് അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന 4 ഓം റസിസ്റ്റൻസ് ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും അതിൻറെ അർത്ഥം റെസിസ്റ്റൻസിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് 0 ആയിരിക്കും കാരണം ഇതിൽ ഏറ്റവും ചെറിയ റസിസ്റ്റൻസ് ആണ് മൊത്തമായ കറണ്ട് ഷോർട്ട് സർക്യൂട്ട് കമ്പിയിലൂടെ പ്രവഹിക്കും അതായത് ന്റെ മൂല്യം പൂജ്യത്തിന് തുല്യമായിരിക്കും ഇവിടെ നമ്മൾ എന്താണ് കാണുന്നത് പൂജ്യത്തിന് തുല്യമായതിനാൽ അതായത് ഈ കറണ്ട് സ്രോതസ്സ് ഉം പൂജ്യത്തിന് തുല്യമായിരിക്കും പൂജ്യത്തിന് തുല്യം ആകുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് ഈ ഘടക ഭാഗം 0 ഉണ്ട് പുറത്തുനിന്നുള്ള വോൾട്ടേജ് സപ്ലൈ യിൽ നിന്ന് പ്രവഹിക്കുന്ന കറണ്ട് 5 ഓം റെസിസ്റ്റൻസ് ആയിരിക്കും അപ്പോൾ നമുക്ക് കറണ്ട് കിട്ടുന്നത് A ഇനി ഈ ചിത്രം നേരിട്ട് കണ്ടാൽ വോൾട്ടേജ് സപ്ലൈ ഇല്ലെങ്കിലും നിങ്ങൾക്ക് നോർട്ടൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുവാൻ സാധിക്കും എങ്ങനെ കിട്ടും കാരണം ഇത് ഷോർട്ട് സർക്യൂട്ട് ആണ് അതിനാൽ ഈ വിഭാഗം പുറത്താണ് ഇപ്പോൾ പൂജ്യമാണ് കാരണം ന്റെ മൂല്യം പൂജ്യം ആണ് അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവുക 5 ഓം റെസിസ്റ്റൻസ് ഇത് ടെർമിനൽ എ ബി യിൽ നിന്ന് നോക്കുമ്പോഴുള്ള അവസാനത്തെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് അപ്പോൾ നിങ്ങൾക്കു നേരിട്ട് പറയാം നോർട്ടൺ റെസിസ്റ്റൻസ് 5 ഓം ആയിരിക്കുമെന്ന് നമുക്ക് ഒന്നുകൂടി ഇത് ഉറപ്പിക്കാം യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് വേറൊന്നുമല്ല പക്ഷെ 5 ഓം ആണെന്ന് ഇത് നിങ്ങൾക്ക് പരിശോധിച്ച് കണ്ടുപിടിക്കാം ഇനി നിയോഗം എന്താണെന്നുവെച്ചാൽ ന്റെ മൂല്യം കണ്ടുപിടിക്കുക അതായത് ഷോർട്ട് സർക്യൂട്ട് ടെർമിനൽ എ ബി യിലൂടെ പ്രവഹിക്കുന്ന ഷോർട്ട് കറണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ടെർമിനൽ എ ബി ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം ഇപ്പോൾ നമ്മൾ സങ്കൽപ്പിച്ചിട്ടുണ്ട് ഒരു ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഉണ്ട് അത് വേറെ ഒന്നുമല്ല നോർട്ടൻ കറണ്ട് ആണ് അപ്പോൾ നമുക്ക് സർക്യൂട്ട് ഉണ്ട് നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ടെർമിനൽ എ ബി യിലൂടെ ഉള്ള ഷോർട്ട് സർക്യൂട്ട് കറൻറ്ന്റെ മൂല്യം കണ്ടുപിടിക്കണം നമ്മൾ ചിത്രം നോക്കിയാൽ 4 ഓം റെസിസ്റ്റർ 10 വോൾട് വോൾടേജ് സ്രോതസ്സ് ആയിട്ട് പാരലൽ ആയിട്ടാണ് കൂടാതെ 4 ഓം റെസിസ്റ്ററും വേറെ 5 ഓം റെസിസ്റ്റർ ആയിട്ട് പാരലൽ ആണ് കാരണം ഇത് പാരലൽ ആയിരിക്കും എങ്കിൽ നിങ്ങൾക്ക് ആശ്രിത കറണ്ട് സ്രോതസ്സ് ഉണ്ടാവും ഇത് നിങ്ങൾക്ക് സർക്യൂട്ട് പരിശോധന ചെയ്താൽ കിട്ടും അതായത് ടെർമിനൽ എ ബി എവിടെയാണ് ടെർമിനൽ എ ബി ഇവിടെ ആയിരിക്കും ഓക്കേ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ലളിതമായ സർക്യൂട്ട് കിട്ടി ഇവിടെ കറണ്ട് ന്റെ മൂല്യം കിട്ടി അത് 4 ഓം റെസിസ്റ്ററിലൂടെ പ്രവഹിക്കുന്നു കറണ്ട് പ്രവഹിക്കുന്നത് നാല് ഓമിലൂടെ ആണ് കാരണം ഇവിടെ വോൾട്ടേജ് നോക്കുക ഇത് നോഡ് ഒന്നിന്റെയും നോഡ് രണ്ടിന്റെയും കുറുകെ ആണ് ഇത് വേറൊന്നുമല്ല പക്ഷേ 4 ഓം റെസിസ്റ്ററിനു കുറുകെ പ്രയോഗിച്ചത് ഇപ്പോൾ ഈ പുതിയ സർക്യൂട്ടിന്റെ സഹായത്തോടെ നമുക്ക് വളരെ എളുപ്പത്തിൽ ന്റെ മൂല്യം കണ്ടുപിടിക്കാം അത് വേറൊന്നുമല്ല പക്ഷേ 10 അതായത് വോൾട്ടേജ് സ്രോതസ്സിന്റെ മൂല്യം പിന്നീട് നമ്മൾ 4 ഓം റെസിസ്റ്റൻസാണ് ഹരിച്ചു ഇപ്പോൾ നമുക്ക് ന്റെ മൂല്യം കിട്ടി ന്റെ മൂല്യം കിട്ടിയപ്പോൾ KCL വെറുതെ പ്രയോഗിക്കുക നോഡിൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ടിന്റെ മൂല്യം കണ്ടുപിടിക്കുക അപ്പോൾ ഇവിടെ നോക്കിയാൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ടിന്റെ മൂല്യം ആദ്യം 10 5 വെച്ച് ഹരിച്ചൂ കാരണം ഈ ചിത്രം നോക്കിയാൽ ഇത് വീണ്ടും 10 വോൾട്ട് ആയിട്ട് പാരലൽ ആണ് അതിനാൽ നിങ്ങൾക്ക് കിട്ടി ഇതാണ് നിങ്ങളുടെ നോർട്ടൻ കറണ്ട് 5 ഓം ആണ് നിങ്ങൾ നിർണ്ണയിച്ച് നോർട്ടൺ റെസിസ്റ്റൻസ് അപ്പോൾ ഈ വിധം നിങ്ങൾക്ക് ഉദാഹരണമായി തന്നിരുന്ന ഈ സർക്യൂട്ട്ൻറെ നോർട്ടൺ തുല്യതാ കണ്ടുപിടിക്കാൻ സാധിക്കും ഇനി നമുക്ക് മുന്നേ കണ്ട ഉദാഹരണത്തിൽ നിന്ന് കുറച്ചു വ്യത്യസ്തമായ വേറൊരു കേസ് നോക്കാം ഈ കേസിൽ നമുക്ക് നോർട്ടൺ തുല്യതാ കണ്ടുപിടിക്കണം പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സർക്യൂട്ടിൽ ഒരു സ്വതന്ത്ര വോൾട്ടേജ് സ്രോതസോ കറണ്ട് സ്രോതസോ ഇല്ല അപ്പോൾ ആ കേസിൽ എന്തു സംഭവിക്കും നമ്മൾ ഏറ്റവും വലതുവശത്തെ ടെർമിനൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ അതായത് ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ കറണ്ട് പൂജ്യം ആകും എന്തുകൊണ്ട് കാരണം നമുക്ക് സർക്യൂട്ടിൽ വേറൊരു സ്രോതസ്സ് ലഭ്യമല്ല കറണ്ട് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഈ കേസിലെ പോലെ തന്നെ ഓപ്പൺ സർക്യൂട്ട് ചെയ്താൽ കറണ്ട് പൂജ്യമായിരിക്കും ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ കൂടി കറണ്ട് പൂജ്യം ആയിരിക്കും കാരണം കറണ്ട് തരുന്ന വേറെ ഒരു സ്രോതസ്സും ഈ സർക്യൂട്ടിൽ ലഭ്യമല്ല കൂടാതെ ആശ്രിത വോൾട്ടേജ് സ്രോതസ്സ് നമ്മൾ ഇവിടെ കാണുന്നത് കറണ്ട് ഐയുടെ മൂല്യത്തെ ആശ്രയിച്ചിരിക്കും അപ്പോൾ നമുക്ക് എന്തു പറയാം നമുക്ക് എപ്പോഴും ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് പൂജ്യം ഉണ്ട് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് പൂജ്യം ഉണ്ട് ഇതിൻറെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോർട്ടൺ കറൻറ്ന്റെ മൂല്യം കണ്ടുപിടിക്കേണ്ടത് ഇല്ല കാരണം നിങ്ങൾക്ക് നോർട്ടൺ കറണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല നമ്മൾ ഇവിടെ ആശ്രിത സ്വതന്ത്ര വോൾട്ടേജ് കറണ്ട് സ്രോതസ്സ് കാണുന്നില്ല അതിനാൽ അടുത്തത് നമുക്ക് എന്തു ചെയ്യാം നമുക്ക് നോർട്ടൺ റസ്റ്റൻറ്സ്ന്റെ മൂല്യം കണ്ടുപിടിക്കാം അതിനാൽ നമ്മൾ എന്തു ചെയ്യും നമുക്ക് സ്വതന്ത്ര സ്രോതസ്സുകൾ ഒന്നുമില്ലാത്തതിനാൽ യുടെയും യുടെയും മൂല്യം പൂജ്യം ആണ് നോർട്ടൺ റെസിസ്റ്റൻസ് നിൻറെ മൂല്യം കണ്ടു പിടിക്കുന്നതിനായി ഒരു ആമ്പിയർ സ്രോതസ്സ് നമ്മൾ പുറത്തുനിന്ന് വച്ചു എന്നിട്ട് ടെർമിനലിന് കുറുകെയുള്ള വോൾട്ടേജ് അളന്നു ടെർമിനലിന് കുറുകെയുള്ള വോൾട്ടേജ് നമ്മൾ പറയുകയാണ് ആണെന്ന് എന്നിട്ട് ഒരു ആമ്പിയർ കറണ്ട് സ്രോതസ്സ് ഈ 2 ടെർമിനലുകളിൽ പ്രയോഗിച്ചു എന്നിട്ട് ന്റെ മൂല്യം കണ്ടുപിടിച്ചു ന്റെ മൂല്യം അതായത് നോർട്ടൺ റെസിസ്റ്റൻസ് ഇനി നിങ്ങൾ ചിത്രം നോക്കിയാൽ കാണാം ന്റെ മൂല്യം കാരണം ഇവ രണ്ടും എതിർ ദിശയിലാണ്

അതിനാൽ അപ്പോൾ ന്റെ മൂല്യം കിട്ടി എന്നിട്ട് ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ള നോർട്ടൺ തുല്യതയുടെ സർക്യൂട്ട് കറണ്ട് സ്രോതസ്സ് ഒന്നുമില്ലാത്ത 0 6 ഓം റെസിസ്റ്റൻസ് ആയിരിക്കും അതിന്റെ അർത്ഥം ഈ കേസിൽ 0 ആണെന്ന് ആണ് അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ പറയാം തെവനിയൻ തുല്യതയിലും നോർട്ടൻ തുല്യതയിലും നമ്മൾ ചർച്ച ചെയ്തത് തെവനിയൻ അല്ലെങ്കിൽ നോർട്ടൺ തുല്യത കണ്ടു പിടിക്കുന്നതിനായി നമ്മൾ സർക്യൂട്ടിനെ രണ്ട് നെറ്റ്വർക്കുകൾ ആയിട്ട് ഭാഗിച്ചു നിങ്ങൾ കാണുന്നതുപോലെ സർക്യൂട്ടിൽ രണ്ട് വിഭാഗങ്ങൾ ഉണ്ട് നമുക്ക് ഈ വിഭാഗം നെറ്റ്വർക്ക് എ ആയിട്ട് പറയാം ഇവിടെ നിങ്ങൾ ലോഡ് അഥവാ റസിസ്റ്റൻസ് കാണുന്നു നിങ്ങൾക്ക് താല്പര്യം ഉള്ളത് കണ്ടുപിടിക്കുക വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ഇത് പ്രധാന സർക്യൂട്ടിൽ നിന്ന് വേർതിരിച്ചിരിക്കും അതിനെ വിളിക്കുന്നത് ആണ് നെറ്റ്വർക്ക് ബി അപ്പോൾ ഈ പൂർണമായ സർക്യൂട്ട്നെ നിങ്ങൾക്ക് രണ്ടായി ഭാഗിക്കാം ഒന്ന് നെറ്റ്വർക്ക് എ മറ്റേത് നെറ്റ്വർക്ക് ബി അപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ലളിതമാക്കുന്നു തെവനിയൻ അല്ലെങ്കിൽ നോർട്ടൻ തുല്യതാ കണ്ടുപിടിക്കുവാനായി ഇവിടെ ടെർമിനൽ എ ബി കാണുന്നു ഇതിൻറെ ഇടത് ഒന്നെങ്കിൽ തെവനിയൻ തുല്യത ആയിരിക്കും അല്ലെങ്കിൽ നോർട്ടൺ തുല്യത അപ്പോൾ ഇത് പരിഹരിക്കുവാൻ ആയി ഈ തുല്യത റെസിസ്റ്ററിനോട് കൂട്ടുക അല്ലെങ്കിൽ ഇത് നെറ്റ്വർക്ക് ബി യ്യ്ക്കു കുറുകെയുള്ള സർക്യൂട്ട് പരിവർത്തന വസ്തു കണ്ടുപിടിക്കുക അപ്പോൾ തെവനിയൻ സിദ്ധാന്തത്തിന്റെ കേസിൽ നമ്മൾ എന്തു ചെയ്യും അപ്പോൾ ഒരു ലീനിയർ സർക്യൂട്ട് തന്നെങ്കിൽ നമ്മൾ അതിനെ പുനക്രമീകരിച്ചു 2 നെറ്റ്വർക്ക് എയും ബിയും രണ്ട് കമ്പികളുമായി ഘടിപ്പിച്ച നെറ്റ്വർക്ക് എ ലളിതമാക്കി കൂടാതെ നെറ്റ്വർക്ക് ബി അങ്ങനെ തന്നെ വെച്ചു ആശ്രിത സ്രോതസ്സുകൾ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുന്ന പരിവർത്തന വസ്തു അതേ നെറ്റ്വർക്കിൽ തന്നെ ഉണ്ടാകണം ഇതിൻറെ അർത്ഥം ഇവിടെ ഒരു ആശ്രിത സോതസ്സ് സർക്യൂട്ടിൽ ഉണ്ടെങ്കിൽ പരിവർത്തന വസ്തുവും അതേ സർക്യൂട്ടിൽ തന്നെ വേണം അപ്പോൾ രണ്ടും വിശകലനത്തിനായി നെറ്റ്വർക്ക് എ യുടെ അകത്തു തന്നെ ഉണ്ടായിരിക്കണം ഇനി നെറ്റ്വർക്ക് വിച്ഛേദിക്കുക നമ്മൾ ഒരു വോൾട്ടേജ് V നെറ്റ്വർക്കിന്റെ ഓപ്പൺ സർക്യൂട്ട് ടെർമിനൽ എയിൽ നിശ്ചയിച്ചു അതിന്റെ അർത്ഥം നമ്മൾ ഈ രണ്ടു ടെർമിനലുകളുടെ കുറുകെ പ്രയോഗിച്ചു നെറ്റ്വർക്ക് എ യിലുള്ള എല്ലാ സ്വതന്ത്ര സ്രോതസ്സുകളും ഓഫ് ആക്കി അല്ലെങ്കിൽ പൂജ്യം ആക്കി അപ്പോൾ എന്തു സംഭവിക്കും നമ്മളൊരു നിഷ്ക്രിയമായ നെറ്റ്വർക്ക് ഉണ്ടാക്കി പക്ഷെ നമുക്ക് ആശ്രിത സ്രോതസ്സുകൾ എല്ലാം അങ്ങനെ തന്നെ വെക്കണം അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും നമുക്ക് നെറ്റ്വർക്ക് എയുടെ ടെർമിനലിന് കുറുകെ ഇൻപുട്ട് റെസിസ്റ്റൻസ് കിട്ടും ഇൻപുട്ട് റെസിസ്റ്റൻസ് കിട്ടിയാൽ നമ്മൾ എല്ലാ സ്വതന്ത്ര സ്രോതസ്സുകളും വീണ്ടും തിരിച്ച് ഇടും അതായത് നമ്മൾ സർക്യൂട്ട്ൻറെ ഇൻപുട്ട് റസിസ്റ്റൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലളിതമായി വോൾടേജ് സ്രോതസ്സ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും കറണ്ട് സ്രോതസ്സ് ഓപ്പൺ സർക്യൂട്ട് ചെയ്യും അപ്പോൾ എല്ലാ സ്വതന്ത്ര സ്രോതസ്സുകളും വീണ്ടും തിരിച്ച് ഇടും എന്നിട്ട് വോൾടേജ് കണ്ടുപിടിക്കും അതായത് നെറ്റ്വർക്ക് എ യുടെ ടെർമിനലിന് കുറുകെ ഉള്ള ഓപ്പൺ സർക്യൂട്ട് വോൾടേജ് തെവനിയന് എതിരായിട്ട് നമുക്ക് നോർട്ടൺ സിദ്ധാന്തം ഉണ്ട് കാരണം ഈ കേസിൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്നു പകരം നമുക്ക് സർക്യൂട്ടിലെ കറണ്ട് കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെയും ഏതെങ്കിലും ലീനിയർ സർക്യൂട്ട് തന്നിട്ടുണ്ട് നമ്മൾ അതിനെ പുനഃക്രമീകരിക്കണം രണ്ട് നെറ്റ്വർക്കുകൾ ആയിട്ട് അതായത് എയും ബിയും ഇവ രണ്ട് കമ്പികളുമായി ഘടിപ്പിച്ചിട്ടുണ്ട് നെറ്റ്വർക്ക് എ ലളിതമാക്കണം അതേസമയം നെറ്റ്വർക്ക് ബി അങ്ങനെ തന്നെ വെക്കണം തെവനിയൻ സിദ്ധാന്തത്തെ പോലെ ഈ കേസിലും ആശ്രിത സ്രോതസ്സുകളും അവയെ നിയന്ത്രിക്കുന്ന പരിവർത്തന വസ്തുക്കളും ഒരേ നെറ്റ്വർക്കിൽ തന്നെ ആയിരിക്കണം ഇനി നെറ്റ്വർക്ക് ബി വിച്ഛേദിക്കുക കറണ്ട് നിശ്ചയിക്കുക അതായത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അപ്പോൾ ഈ രണ്ടു ടെർമിനലുകളും നിങ്ങൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും എന്നിട്ട് നെറ്റ്വർക്ക് എ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു ടെർമിനലിലൂടെ പ്രവഹിക്കുന്ന കറൻറ് കണ്ടുപിടിക്കും എല്ലാ സ്വതന്ത്ര സ്രോതസ്സുകളും നെറ്റ്വർക്കിലെ ഓഫ് ചെയ്യുകയോ പൂജ്യം ആകുകയോ ചെയ്യും നിഷ്ക്രിയമായ സർക്യൂട്ട് ഉണ്ടാക്കുന്നതിനുവേണ്ടി ആശ്രിത സ്രോതസ്സ്കൾ അങ്ങനെ തന്നെ വെച്ചിട്ട് ഇനി വീണ്ടും ഇൻപുട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം അപ്പോൾ നിങ്ങൾ നോക്കിയാൽ തെവിനിയൻ സിദ്ധാന്തം നോർട്ടൺ സിദ്ധാന്തം രണ്ട് കേസിലും ഇൻപുട്ട് റെസിസ്റ്റൻസ് ഒരുപോലെയാണ് മാറ്റം എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് നമ്മൾ നോർട്ടൺ തുല്യത കേസിൽ കണ്ടുപിടിക്കേണ്ടത് തെവിനിയൻ കേസിൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ തുല്യത നോക്കിയാൽ തെവിനിയൻ തുല്യതാ ആയിരിക്കും അത് വേറൊന്നുമല്ല പക്ഷെ റസിസ്റ്റൻസ് ആയിട്ട് സീരീസിൽ അപ്പോൾ ഇത് തെവിനിയൻ തുല്യത ആയിരിക്കും നോർട്ടണ്ണിന്റെ കേസിൽ നമുക്ക് ഉള്ള കറണ്ട് അതായത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അല്ലെങ്കിൽ നോർട്ടൺ കറണ്ട് കൂടാതെ പാരലൽ ആയിട്ട് റെസിസ്റ്റൻസ് അതായത് നോർട്ടൺ റെസിസ്റ്റൻസ് ഇത് നമ്മൾ ന്റെ വിശകലനത്തിൽ കണ്ടുപിടിച്ചത് തന്നെ ആയിരിക്കും അപ്പോൾ ഈ രണ്ടു കേസിലും റസിസ്റ്റൻസ് കണ്ടുപിടിക്കുക ഒന്നു തന്നെയായിരിക്കും മാറ്റം എന്തിൻറെ കേസിൽ ആയിരിക്കും എന്നു വെച്ചാൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ടോ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്ജോ കണ്ടുപിടിക്കുന്നന്റെ കേസിൽ അപ്പോൾ ഇതു വെച്ച് ഇന്നത്തെ സെഷൻ നമുക്ക് നിർത്താം അപ്പോൾ ഈ സെഷനിൽ നമ്മൾ നോർട്ടൺ തുല്യത ആശ്രിത സ്രോതസ്സ് ഉള്ളപ്പോൾ വിശകലനം ചെയ്തു